നമസ്കാരം മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെ പ്രയോഗാത്മക ചലനത്തിൻറെ ഗണിതശാസ്ത്ര മാതൃക ഉണ്ടാക്കുന്നതിനെകുറിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ചചെയ്തു റൊട്ടേഷൻ സിസ്റ്റത്തിൻറെ ഗണിതശാസ്ത്ര മോഡലിംഗിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും അതിനാൽ ഇന്നത്തെ ചർച്ച നമുക്ക് ആരംഭിക്കാം അതിനാൽ ഒരു ബോഡിയുടെ ഭ്രമണ ചലനത്തെ ഒരു നിശ്ചിത അക്ഷത്തെ ചുറ്റിയുള്ള ചലനമായി നിർവചിക്കാം ഭ്രമണ ചലനത്തിനായുള്ള ന്യൂട്ടൻറെ ചലനനിയമത്തിൻറെ വിപുലീകരണം ഒരു നിശ്ചിത അച്ചുതണ്ടിൻറെ ബീജഗണിത മൊമെന്റുകൾ അല്ലെങ്കിൽ ടോർക്ക് ജഡത്വത്തിൻറെ ഗുണനത്തിനും അക്ഷത്തെക്കുറിച്ചുള്ള കോണീയ ത്വരണത്തിനും തുല്യമാണെന്ന് പറയുന്നു അതിനാൽ ഒരു ബോഡിയിൽ ബാധകമാകുന്ന ടോർക്കുകളുടെ ആകെത്തുക നമ്മൾ നിർവചിക്കുന്നു അത് കറങ്ങുന്നത് Jα ക്ക് തുല്യമാണ് J ജഡത്വത്തെ സൂചിപ്പിക്കുന്നു കോണീയ ത്വരയാണ് അതിനാൽ ഭ്രമണത്തിൻറെ ചലനത്തെ വിവരിക്കാൻ നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റ് വേരിയബിളുകൾ കോണീയ വേഗത കോണീയ സ്ഥാനചലനം എന്നിവയാണ് അതിനാൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോണീയ വേഗത ലഭിക്കും കോണീയ ത്വരണം നൽകുന്നു ഇപ്പോൾ ഭ്രമണ ചലനങ്ങളിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ ആദ്യം ജഡത്വം മാണ് അതിനാൽ ഭ്രമണ ചലനത്തിൻറെ ഗതികോർജ്ജം സംഭരിക്കുന്ന ഒരു മൂലകത്തിൻറെ സ്വഭാവമാണ് ജഡത്വം കണക്കാക്കുന്നത് അതിനാൽ വിവർത്തന ചലനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്ത പിണ്ഡവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത് പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയും ഭ്രമണ ചലനത്തിൻറെ ഗതികോർജ്സംഭരിക്കുന്ന മൂലകത്തിൻറെ സ്വഭാവമാണ് ഇവിടെയും ജഡത്വം ഇപ്പോൾ ഒരു നിശ്ചിത ബോഡിയുടെ ജഡത്വം ഭ്രമണത്തിൻറെ അച്ചുതണ്ടിനെയും അതിൻറെ സാന്ദ്രതയെയും കുറിച്ചുള്ള ജ്യാമിതീയ ഘടനയെ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്കിൻറെ ജഡത്വം അല്ലെങ്കിൽ ആരം r പിണ്ഡം M ആണെങ്കിൽ ജ്യാമിതീയ അക്ഷത്തിൽ അതിൻറെ ജഡത്വത്തിൻറെ മൂല്യം എന്ന് നൽകിയിരിക്കുന്നു ഇപ്പോൾ ജഡത്വ J ഉള്ള ഒരു ബോഡിയിൽ ടോർക്ക് പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ ചിത്രം കണ്ടാൽ ഭ്രമണം ചെയ്യുന്ന ശരീരം ജഡത്വ J ഉള്ളതും അത് സ്ഥാനചലനം സംഭവിക്കുന്നതും കാണാം നമ്മൾ ഒരു ടോർക്ക് പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന സമവാക്യം അതിനാൽ ഇവിടെ θ കോണീയ സ്ഥാനചലനം കോണീയ വേഗത കോണീയ ത്വരണം

വിവർത്തന ചലനത്തിൻറെ കാര്യത്തിൽ നാം കണ്ട സ്പ്രിംഗ് ലീനിയർ സ്പ്രിംഗ് പോലെ നമുക്ക് ടോർഷണൽ സ്പ്രിംഗും നിർവചിക്കാം ടോർഷണൽ സ്പ്രിംഗ് നമുക്ക് ഒരു ടോർഷണൽ സ്പ്രിംഗ് സ്ഥിരാങ്കം K ഉണ്ടെന്ന് പറയാം അത് യൂണിറ്റ് കോണീയ സ്ഥാനചലനത്തിന് ടോർക്കിൽ നൽകിയിട്ടുണ്ട് അതിനാൽ പ്രയോഗിച്ച ടോർക്കിന് വിധേയമാകുമ്പോൾ ഒരു വടി അല്ലെങ്കിൽ ഷാഫ്റ്റിൻറെ അനുയോജ്യതയെ പ്രതിനിധീകരിക്കാൻ നമുക്ക് ആവിഷ്കരിക്കാനാകും അതിനാൽ നിങ്ങളുടെ ഭ്രമണം ചെയ്യുന്ന ബോഡിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഷാഫ്റ്റിൻറെയോ വടിയുടെയോ സ്വഭാവമാണ് ടോർഷണൽ സ്പ്രിംഗ് അതിനാൽ നിങ്ങൾ ടോർക്ക് നൽകുമ്പോൾ അത് ചെറുതായി വളച്ചൊടിക്കുന്നു അത് ടോർഷണൽ സ്പ്രിംഗിൻറെ സ്വഭാവം നൽകുന്നു അതിനാൽ നിങ്ങൾ എന്താണ് എഴുതുക ലളിതമായ ടോർക്ക് സ്പ്രിംഗ് സിസ്റ്റത്തെ T എന്ന സമവാക്യം പ്രതിനിധീകരിക്കാം ഇപ്പോൾ ടോർഷണൽ സ്പ്രിംഗ് ഒരു ടോർക്ക് TP എന്ന് ലോഡുചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള സമവാക്യം എന്ന് പരിഷ്കരിക്കാനാകും ഇപ്പോൾ വിവർത്തന ചലനത്തിൻറെ കാര്യത്തിൽ നമ്മൾ കണ്ടതിന് സമാനമായി ഈ സാഹചര്യത്തിലും നിങ്ങൾക്ക് വിവിധ സംഘർഷങ്ങൾ കാണും എന്താണ് ആ സംഘർഷങ്ങൾ ആദ്യത്തേത് ടോർക്ക് ആയ വിസ്കോസ് ഘർഷണം ഈ ബി യെ വിസ്കോസ് ഘർഷണ ഗുണകം എന്ന് വിളിക്കുന്നു അപ്പോൾ സ്റ്റാറ്റിക് ഘർഷണം അങ്ങനെയാണെങ്കിൽ ഘർഷണ ടോർക്ക് അതായത് വസ്തു നീങ്ങാൻ തുടങ്ങുന്നു അത്തരം സന്ദർഭങ്ങളിൽ സംഘർഷത്തിൻറെ മൂല്യം നൽകുന്നു കൂടാതെ ബോഡിയിൽ ബാധകമാകുന്ന സംഘർഷത്തിൻറെ ദിശ കാണിക്കുന്നതിന് അടിസ്ഥാനപരമായി പ്ലസ് മൈനസ് ഉപയോഗിക്കുന്നു പിന്നെ കൂലോംബ് ഘർഷണം കൂലോംബ് ഘർഷണം

അതിനാൽ ഭ്രമണം ചെയ്യുന്ന ബോഡിയിലെ വിസ്കോസ് ഘർഷണം സ്റ്റാറ്റിക് കൂലംബ് ഘർഷണം എന്നിവ നമ്മൾ അവൾ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെ ഗണിതശാസ്ത്ര മോഡൽ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് മനസിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അതിനാൽ ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് ഒരു മോട്ടോർ ഷാഫ്റ്റിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിൽ ഘർഷണ ഗുണകം ഉണ്ട് കാരണം കെ കാഠിന്യ കോയഫിഷ്യന്റ് എന്ന് പറയും ഇത് ടോർഷണൽ സ്പ്രിംഗ് കോയഫിഷ്യന്റ്നെ നിർവചിക്കുന്നു ഇപ്പോൾ മോട്ടോർ പ്രയോഗിക്കുന്ന മെക്കാനിക്കൽ ടോർക്കാണ് ന് തുല്യമായ ജഡത്വം ഉള്ള ലോഡിന് എപ്പോൾ വേണമെങ്കിലും സ്ഥാനചലനം സംഭവിക്കുന്നു മോട്ടോർ ജഡത്വം ഉം വിസ്കോസ് ഘർഷണ ഗുണകം ഉം ആണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മോട്ടോർ ഒരു നിശ്ചലമായുള്ള ലോഡിലേക്ക് ഒരു ഷാഫ്ട് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിൻറെ സ്പ്രിംഗ് സ്ഥിരാങ്കം K ആണ് ഇവിടെ കാണുന്ന രണ്ട് മെക്കാനിക്കൽ ഘടകങ്ങൾ തമ്മിലുള്ള കർക്കശമല്ലാത്ത ചേരൽ പലപ്പോഴും സിസ്റ്റത്തിൻറെ എല്ലാ ഭാഗങ്ങളിലേക്കും പകരാൻ കഴിയുന്ന ടോർഷണൽ അനുരണനത്തിന് കാരണമാകുന്നു ഇപ്പോൾ സ്വതന്ത്ര ബോഡി ഡയഗ്രം എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നോക്കാം ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെ സ്വതന്ത്ര ബോഡി ഡയഗ്രം നിർവചിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ വേരിയബിളുകൾ മോട്ടോർ ടോർക്ക് അല്ലാതെ മറ്റൊന്നുമല്ല മോട്ടോറിൻറെ വിസ്കോസ് ഘർഷണം അതിനാൽ ഇത് മോട്ടറുമായി ബന്ധപ്പെട്ട വിസ്കോസ് ഘർഷണ കോയഫിഷ്യന്റ് K ഷാഫ്റ്റിൻറെ സ്പ്രിംഗ് സ്ഥിരാങ്കം മോട്ടോർ ഡിസ്പ്ലേസ്മെന്റ് മോട്ടോർ വേഗത Jm എന്നത് മോട്ടോർ ജഡത്വമാണ് ലോഡ് ഡിസ്പ്ലേസ്മെന്റായി കണക്കാക്കുന്നു ലോഡ് വേഗതയും ലോഡ് ജഡത്വവുമാണ് അതിനാൽ സിസ്റ്റത്തിൻറെ സ്വതന്ത്ര ബോഡി ഡയഗ്രം നിർവചിക്കാൻ നമ്മൾ ഈ വേരിയബിളുകൾ ഉപയോഗിക്കും അതിനാൽ മോട്ടോർ വശത്ത് നിന്ന് സ്വതന്ത്ര ബോഡി ഡയഗ്രം കണ്ടാൽ ടോർക്ക് പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വിസ്കോസ് ഘർഷണ ഭാഗവും മോട്ടോർ ടോർക്കിൻറെ വിപരീത ദിശയിൽ ബാധകമായ സ്പ്രിംഗ് ടോർക്ക് ഭാഗവും ലഭിക്കും സിസ്റ്റത്തിൻറെ ടോർക്ക് സമവാക്യങ്ങൾ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സിസ്റ്റത്തിൽ 3 എനർജി സ്റ്റോറേജ് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു അത് K എന്നിവയാണ് അതിനാൽ നിങ്ങൾ എന്തുചെയ്യും ഈ കേസിൽ 3 സ്റ്റേറ്റ് വേരിയബിളുകൾ നമ്മൾ കണ്ടെത്തും മോട്ടോർ സൈഡിൻറെയും ലോഡ് സൈഡ് ഫ്രീ ബോഡി ഡയഗ്രാമിൻറെയും കാര്യത്തിൽ നമ്മൾ എന്ന ഈ 2 സമവാക്യങ്ങളുമായി എത്തി ഇപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ് വേരിയബിളുകൾ ഉണ്ടെന്ന് കരുതുക അതിനാൽ അവ ഡിഫറെൻഷ്യട്ടു ചെയ്താൽ നമുക്ക് എഴുതാൻ കഴിയുന്ന സ്റ്റേറ്റ് സമവാക്യങ്ങൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ലഭിച്ച സ്റ്റേറ്റ് സമവാക്യങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ നമ്മൾ നമ്മൾ എങ്ങനെ പ്രതിനിധീകരിക്കും നമ്മൾ സ്റ്റേറ്റ് വേരിയബിളുകളെ

എന്നിങ്ങനെ നിർവചിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യ സമവാക്യമാണ് അതിനാൽ ഇവിടെ നിങ്ങൾക്ക് x3 ഉണ്ട് നിങ്ങൾക്ക് x2 ഉണ്ട് നിങ്ങൾക്ക് x3 മൈനസ് x2 ഉണ്ട് അതിനാൽ x3 ന് ഗേയിൻ 1 ആയിരിക്കും x2 ന് മൈനസ് 1 ആയിരിക്കും നിങ്ങൾ സംഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അതായത് ന് തുല്യമല്ലാതെ മറ്റൊന്നുമില്ല അതിനാൽ ആദ്യ സമവാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് ഈ രണ്ട് ലിങ്കുകളാണ് ഇപ്പോൾ ൽ നിന്ന് അതിനാൽ ഞങ്ങൾ നൊപ്പം x1 ൽ നിന്ന് ലൂപ്പ് എടുത്ത് അതിനെ ലേക്ക് ബന്ധിപ്പിക്കും ഇപ്പോൾ നിങ്ങൾ സമന്വയിപ്പിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും അത് x2 അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾക്ക് യുമായി 1 ഇന്റഗ്രേറ്റർ ലിങ്ക് ഉണ്ട് അത് ഒന്നുമില്ല എന്നാൽ ആണ് നിങ്ങൾ വീണ്ടും സംയോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് x1 ലഭിക്കും അതിനാൽ വീണ്ടും 1 ഇന്റഗ്രേറ്റർ ബ്ലോക്ക് സൃഷ്ടിച്ച് നിങ്ങൾക്ക് x1 ലഭിക്കും ഇപ്പോൾ അടുത്തത് എന്ന സമവാക്യമാണ് അതിനാൽ ഞങ്ങൾ Tm നെ ഒരു ഇൻപുട്ട് കുറിപ്പായി ഇടുകയും തുടർന്ന് ഇടുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ഈ സമവാക്യം ഉപയോഗിക്കുകയും ലിങ്കുകൾ കണ്ടെത്തുകയും ചെയ്യുന്നു അതിനാൽ ആദ്യം ആണ് അതിനാൽ x1 ൽ നിന്ന് നമുക്ക് പിന്നെ x3 ൽ നിന്ന് ലഭിക്കുന്നു അതിനാൽ x3 ൽ നിന്ന് നേട്ടത്തോടെ ഞങ്ങൾ വീണ്ടും ലിങ്ക് ബന്ധിപ്പിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഉണ്ട് നേട്ടവുമായി ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇതുപയോഗിച്ച് നിങ്ങൾ എന്ന സംഗ്രഹം പൂർത്തിയാക്കുന്നു ഇപ്പോൾ സംയോജനവുമായി x3 ലേക്ക് ഇന്റഗ്രേറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ൻറെ ഇന്റഗ്രൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് x3 ലഭിക്കും അതിനാൽ ഈ 3 സമവാക്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഇപ്പോൾ സിസ്റ്റത്തിൻറെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അവതരണം സൃഷ്ടിച്ചു ഇനി നമുക്ക് ഗിയർ ട്രെയിനിനെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഗിയർ ട്രെയിൻ അല്ലെങ്കിൽ ലിവർ അല്ലെങ്കിൽ ഒരു പുള്ളിക്ക് മുകളിലുള്ള ടൈമിംഗ് ബെൽറ്റ് എന്നത് സിസ്റ്റത്തിൻറെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ഊർജ്ജം പകരുന്ന ഒരു മെക്കാനിക്കൽ ഉപകരണമാണ് അത് ശക്തി ടോർക്ക് വേഗത സ്ഥാനചലനം എന്നി വയിൽ മാറ്റം വരുത്താം അതിനാൽ പരമാവധി പവർ ട്രാൻസ്ഫർ നേടാൻ ഉപയോഗിക്കുന്ന പൊരുത്തപ്പെടുന്ന ഉപകരണങ്ങളായി ഈ ഉപകരണങ്ങള് കണക്കാക്കാം ഇപ്പോൾ ഇവ ചിത്രത്തിൽ ഞങ്ങൾ കാണുന്നു 2 ഗിയറുകൾ ഒന്നിച്ച് ചേർക്കുന്നത് കാണാം അനുയോജ്യമായ കേസ് പരിഗണിക്കുമ്പോൾ ഗിയറുകളുടെ ജഡത്ത്വവും സംഘർഷവും അവഗണിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ഈ ഗിയറുകളിലൂടെ ടോർക്ക് ഉള്ള രണ്ടാമത്തെ ഗിയറിലേക്ക് മാറ്റുന്നു ഇപ്പോൾ ടി 1 ഉം ടി 2 ഉം തമ്മിലുള്ള ബന്ധം എങ്ങനെ സൃഷ്ടിക്കും അതിനാൽ ടോർക്ക് ടി 1 ഉം ടി 2 ഉം തമ്മിലുള്ള ബന്ധവും തുടർന്ന് കോണീയ സ്ഥാനചലനം ഉം ഉം ഗിയറിലെ പല്ലുകളുടെ സംഖ്യകളും എൻ 1 എൻ 2 എന്നിവ ഇനിപ്പറയുന്ന വസ്തുതകളുമായി പരസ്പരബന്ധിതമാണ് ഗിയറിൻറെ ഉപരിതലത്തിലെ പല്ലുകളുടെ എണ്ണം ഗിയറുകളുടെ ആരം r1 r2 എന്നിവയ്ക്ക് ആനുപാതികമാണ് അതിനാൽ നമുക്ക് നിർവചിക്കാം കാരണം r1 N1 ന് ആനുപാതികവും r2 N2 ന് ആനുപാതികവുമാണ് അതിനാൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് r1N2 r2N1 നെ പരസ്പരബന്ധിതമാക്കാം ഇപ്പോൾ ഓരോ ഗിയറിൻറെയും ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന ദൂരം തുല്യമാണ് അതിനാൽ നിങ്ങൾക്ക് എഴുതാം ഇപ്പോൾ മൂന്നാമത്തേത് ഒരു ഗിയർ ചെയ്യുന്ന ജോലി മറ്റുള്ളവരുടേതിന് തുല്യമാണ് കാരണം നഷ്ടങ്ങളൊന്നുമില്ലെന്ന് കരുതപ്പെടുന്നു അത്തരം സന്ദർഭങ്ങളിൽ അതിനാൽ ഈ 3 പരസ്പര ബന്ധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അത് എഴുതാം അതിനാൽ ഗിയർ സിസ്റ്റത്തിൻറെ കാര്യത്തിൽ ഒരു വശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് വിവിധ പാരാമീറ്ററുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരസ്പര ബന്ധമാണിത് ഇപ്പോൾ പ്രായോഗികമായി ഗിയറുകൾക്ക് കപ്പിൾഡ് ഗിയർ പല്ലുകൾക്കിടയിൽ ജഡത്വവും സംഘർഷവും ഉണ്ട് അവ പലപ്പോഴും അവഗണിക്കാനാവില്ല അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ഗിയർ ട്രെയിനിന് തുല്യമായ പ്രാതിനിധ്യം വിസ്കോസ് ഘർഷണം കുളമ്ബ്സ് ഘർഷണം ജഡത്വം എന്നിവ കൂട്ടമായ പാരാമീറ്ററുകളായി കണക്കാക്കുന്നു ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കുളമ്ബ്സ് സംഘർഷങ്ങൾ ഉണ്ട് തുടർന്ന് ബി 1 ബി 2 എന്നിവ വിസ്കോസ് ഘർഷണങ്ങളാണ് ഗിയർ 1 ൽ നിന്ന് പ്രയോഗിക്കുന്ന ടോർക്കാണ് ടി അതിനാൽ ഗിയർ എൻ 1 ൽ പ്രയോഗിച്ച് ഗിയർ 2 ലേക്ക് വിവർത്തനം ചെയ്ത ടി 1 നിൻറെ വിപരീത ടോർക്ക് ടി 2 ഉം ഗിയർ 2 ൽ നിന്ന് ഊർജ്ജ0 ജെ 2 ന് തുല്യമായ ജഡത്വം ഉള്ള ഒബ്ജക്റ്റ് ലേക്ക്കൊടുക്കപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾക്ക് 2 ഗിയറുകളുള്ളതിനാൽ നിങ്ങൾക്ക് 2 ടോർക്ക് സമവാക്യങ്ങൾ ആവശ്യമാണ് അതിനാൽ ഗിയർ 2 ന് നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ആദ്യ വശത്തെ ടോർക്ക് സമവാക്യം പ്രയോഗിച്ച ടോർക്ക് ഇപ്പോൾ ഗിയർ 1 ഗിയർ 2 എന്നിവയുമായി ബന്ധപ്പെട്ട ഈ 2 സമവാക്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു മുമ്പത്തെ പരസ്പരബന്ധം ഉപയോഗിച്ച് അതിനാൽ ഗിയർ ട്രെയിനിൻറെ ഒരു വശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ജഡത്വം സംഘർഷം അനുവർത്തനം ടോർക്ക് വേഗത സ്ഥാനചലനം എന്നിവ പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതിനാൽ ഈ സമവാക്യം കാണുമ്പോൾ ട്രാൻസ്ഫോർമർ സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ സമവാക്യങ്ങളുമായി പരസ്പരബന്ധം പുലർത്താൻ കഴിയും അത് നമ്മുടെ മുമ്പത്തെ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് അതിനാൽ ട്രാൻസ്ഫോർമറിൻറെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ നമ്മൾ ഒരു വശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് വൈദ്യുതി കൈമാറുന്നുവെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഗിയർ ഒരു വശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ശക്തി കൈമാറുന്ന മെക്കാനിക്കൽ ക്രമീകരണമാണ് അതിനാൽ ഗിയറുകളുടെ മെക്കാനിക്കൽ സംവിധാനം ട്രാൻസ്ഫോർമറുകളുടെ ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി എത്രത്തോളം സാമ്യമുള്ളതാണെന്ന് ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഗിയർ 2 മുതൽ ഗിയർ 1 വരെ പ്രതിഫലിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ഇനിപ്പറയുന്ന അളവുകൾ എന്ന ജഡത്വം വിസ്കോസ് കോയഫിഷ്യന്റ് ടോർക്ക് ഗിയർ 1 സംബന്ധിച്ച് നമ്മൾ പറയുന്ന കോണീയ സ്ഥാനചലനം അതായത് എന്ന് പറയുന്നു അതുപോലെ നമ്മൾ ഗിയറിലേക്ക് പരിവർത്തനം ചെയ്യുന്ന കോണീയ വേഗത കുളമ്ബ് ഘർഷണ ഗുണകം

അതിനാൽ ഈ ഘടകങ്ങളെല്ലാം തുല്യമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ടോർക്ക് ടി എഴുതുന്നതിന് നിങ്ങൾക്ക് അതിൻറെ മൂല്യം നൽകാം തുല്യമായ കൂലംബ് ടോർക്ക് ആണ്

അതിനാൽ അതിനാൽ ഈ സമവാക്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പരസ്പരബന്ധം പുലർത്താൻ കഴിയും ട്രാൻസ്ഫോർമറിൻറെ കാര്യത്തിലും നിങ്ങൾ പ്രതിരോധവും പ്രതിപ്രവർത്തന മൂല്യവും ദ്വിതീയ വശത്ത് നിന്ന് പ്രാഥമിക ഭാഗത്തേക്ക് മാറ്റുമ്പോൾ സമാനമായ ബന്ധം നിങ്ങൾ കാണും ഈ ഗിയറിൻറെ കാര്യത്തിൽ നമ്മൾ കാണുന്നതുപോലെ ഗിയർ 2 മുതൽ ഗിയർ 1 വരെയുള്ള വിവിധ സവിശേഷതകളുടെ പ്രതിഫലനം അതിനാൽ ട്രാൻസ്ഫോർമറിൻറെ കാര്യത്തിൽ ഗിയർ ക്രമീകരണം ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി വളരെ സാമ്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഭ്രമണ ചലനത്തെക്കുറിച്ചാണ് അതിനാൽ അടുത്ത പ്രഭാഷണം മുതൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ സിസ്റ്റത്തിന് അപ്പുറമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും അതുവഴി മെക്കാനിക്കൽ സിസ്റ്റത്തെ എങ്ങനെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്നു തുല്യമായി പ്രതിനിധീകരിക്കാമെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും നന്ദി